എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 ലെ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടെയിലേഴ്സ് പോളിനോമിയൽ Taylor's polynomial ടെയ്ലർ സീരീസ് എന്നിവ പഠിക്കും ടെയിലേഴ്സ് പോളിനോമിയലിൽ നിന്ന് ആരംഭിക്കുകയും തുടർന്ന് ടെയിലേഴ്സ് പോളിനോമിയലിൽ നിന്നും ടെയ്ലർ സീരീസിലേക്ക് മടങ്ങുകയും ചെയ്യും ഈ ടെയിലേഴ്സ് സമവാക്യം മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ സാമാന്യവൽക്കരണമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ പഠിച്ച കോഷി മീൻ വാല്യൂ സിദ്ധാന്തം ഇവിടെയുള്ള ഫംഗ്ഷന് n 1 ഓർഡർ വരെയുള്ള എല്ലാ ഡെറിവേറ്റീവുകളും ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു ചില ഇടവേളകളിൽ x x0 ന് തുല്യമാണ് ഇത് ഉള്ളതിനാൽ ഡിഗ്രി n ന്റെ ഈ പോളിനോമിയൽ Pn കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു പോളിനോമിയൽ Pn 0 ന് ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമാണ് രണ്ടാമത് ആദ്യത്തെ ഡെറിവേറ്റീവ് ഈ പോളിനോമിയലിന്റെ ഫംഗ്ഷന്റെ ആദ്യ ഡെറിവേറ്റീവിന് തുല്യമാണ് മൂന്നാമത്തെ വ്യവസ്ഥ x0 ഈ ഘട്ടത്തിൽ ഈ പോളിനോമിയലിന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് x0 എന്നതിലെ ഫംഗ്ഷന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവിന് തുല്യമാണ് അടിസ്ഥാനപരമായി ഈ ഡെറിവേറ്റീവുകളെല്ലാം ഫംഗ്ഷൻ തന്നെ ആദ്യത്തെ ഡെറിവേറ്റീവ് രണ്ടാമത്തെ ഡെറിവേറ്റീവ് n th ഡെറിവേറ്റീവ് എന്നിവയെല്ലാം പോളിനോമിയലിന്റെ ഈ ഡെറിവേറ്റീവിന് തുല്യമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഈ വ്യവസ്ഥകൾ ഉള്ളതിനാൽ അത്തരമൊരു പോളിനോമിയലിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു പോളിനോമിയൽ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും x0 ഫംഗ്ഷൻ മൂല്യം 0 എന്ന ഫംഗ്ഷന് അടുത്തായിരിക്കണം x0 ൽ പലതും 2 ഓർഡർ n ന്റെ ഡെറിവേറ്റീവുകൾ തുല്യമാണ് എന്നാൽ ഈ അവസ്ഥകൾ കാരണം ഡിഗ്രി n ന്റെ ഈ പോളിനോമിയലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ എഫ് ഫംഗ്ഷനെ പ്രതിനിധീകരിക്കുമെന്ന് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്നു അത്തരമൊരു പോളിനോമിയൽ എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് ഇപ്പോൾ ചോദ്യം ഡിഗ്രി n ന്റെ ഒരു പൊതു പോളിനോമിയൽ നമ്മൾ ഇവിടെ അനുമാനിക്കുന്നു നമ്മൾ അത് എന്ന് എടുക്കുന്നു ഈ അജ്ഞാതമായ c0 c1 c2 എന്നിവ വിലയിരുത്താനുള്ള സൌകര്യം കാരണം നമ്മൾ ഈ പോളിനോമിയൽ എടുത്ത പ്രത്യേക രൂപമാണ് എന്നാൽ ഡിഗ്രി n ന്റെ ഏതെങ്കിലും പൊതു പോളിനോമിയൽ അനുമാനിക്കാനും ഒരാൾക്ക് കഴിയും ഇപ്പോൾ നമ്മൾ സജ്ജമാക്കിയ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി ഈ കോഫിഫിഷ്യൻറുകൾ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ x0 പോയിന്റിലെ ഈ പോളിനോമിയലിന്റെ n th ഓർഡർ ഡെറിവേറ്റീവ് വരെ ഇത് ഫംഗ്ഷന്റെ ബന്ധപ്പെട്ട ഡെറിവേറ്റീവിന് തുല്യമായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതേ പോയിന്റ് x 0 ഈ അവസ്ഥ ആദ്യം ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള ഈ പോളിനോമിയലിന്റെ ആദ്യ ഡെറിവേറ്റീവ് തുല്യമാണെന്ന് നമുക്കറിയാം ഒരിക്കൽ ഇത് ഒരു സ്ഥിരാങ്കമായതിനാൽ ഇത് 0 ന് തുല്യമായിരിക്കും തുടർന്ന് ഇവിടെ x ഉള്ള രണ്ടാമത്തെ ടേം എടുക്കും അതിനാൽ നമുക്ക് ഇതിൽ നിന്ന് c1 ലഭിക്കും അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും തുടർന്ന് 3c3 ഉം ഇവിടെയും ലഭിക്കും രണ്ടാമത്തെ ഡെറിവേറ്റീവിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോയാൽ ഈ ആദ്യത്തെ ഡെറിവേറ്റീവിൽ നിന്ന് നമുക്ക് ഇത് വീണ്ടും വേർതിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ 2c2 ലഭിക്കും 3x2c3 എന്നിങ്ങനെ നമുക്ക് n നേടുന്നതിന് ഈ പ്രക്രിയ വീണ്ടും ആവർത്തിക്കാം n th ഓർഡർ ഡെറിവേറ്റീവായതിനാൽ ഇത് n th ഓർഡർ പോളിനോമിയലായതിനാൽ നമുക്ക് സ്ഥിരമായ ഒരു പദം മാത്രമേ ലഭിക്കൂ അത് ഇവിടെ n cn എന്ന കോഫിഫിഷ്യന്റ് ഇവിടെ എക്സ്പ്രഷനിൽ വരും ഇവിടെ എക്സ് ടേം ഉണ്ടാകില്ല കാരണം പോളിനോമിയൽ n ഡിഗ്രിയായിരുന്നു അതിനുശേഷം നമ്മൾ n തവണ ഡിഫറെന്ഷ്യേറ്റ് ചെയ്തു നമ്മളുടെ വ്യവസ്ഥകൾ x0 ലെ പോളിനോമിയൽ മൂല്യം x0 ലെ ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യവും n ഓർഡർ വരെയുള്ള കൂടുതൽ ഡെറിവേറ്റീവുകളും തുല്യവും ആയിരിക്കണം ഫംഗ്ഷണൽ മൂല്യത്തിൽ നിന്ന് നമുക്ക് ഇവിടെ Pn ലഭിക്കും ഈ നിബന്ധനകൾക്കെല്ലാം തുല്യമാണ് നമുക്ക് c1 മാത്രമേ ലഭിക്കുകയുള്ളൂ x എന്നത് x0 ന് തുല്യമാകുമ്പോൾ നമുക്ക് Pn c0 Pn f ആയതിനാൽ f c0 ലഭിക്കും രണ്ടാമത്തേത് നമ്മൾ ഈ ആദ്യത്തെ ഡെറിവേറ്റീവിൽ പകരമാകുമ്പോൾ നിങ്ങൾക്ക് c1 ലഭിക്കും ഈ അവസ്ഥയിൽ നിന്ന് c2 ഫംഗ്ഷന്റെ ആദ്യ ഡെറിവേറ്റീവ് ആയി നിങ്ങൾക്ക് x0 ൽ രണ്ടാമത്തെ ഡെറിവേറ്റീവ് ഈ ഫാക്റ്റോറിയൽ കൊണ്ട് ഹരിക്കാം ഫാക്റ്റോറിയൽ 2 ന് ഈ ഗുണകങ്ങൾ ഉള്ളതിനാൽ ഇപ്പോൾ നമുക്ക് പോളിനോമിയൽ ഉണ്ട് പോളിനോമിയൽ ഈ Pn f ആയിരിക്കും അത് c0 ആയിരുന്നു ഈ ഗുണകങ്ങളെല്ലാം ഇവിടെ പകരമാവുന്നു അതിനാൽ ഇതിനെയാണ് നമ്മൾ ഓർഡർ n ന്റെ ടെയിലേഴ്സ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഉദാഹരണത്തിലൂടെ പോയി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ടെയിലേഴ്സ് പോളിനോമിയൽ നിർമ്മിക്കുകയാണെങ്കിൽ x 0 ന് ചുറ്റും ex P0 ഡിഗ്രി 0 പോളിനോമിയലിന്റെ ആദ്യ പദം മാത്രമേയുള്ളൂ e0 അതിനാൽ e0 വെറും 1 ആയിരിക്കും ഡിഗ്രി 0 ന്റെ പോളിനോമിയൽ ലളിതമായിരിക്കും നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ പ്ലോട്ട് ഡിഗ്രി 0 ന്റെ ഈ പോളിനോമിയൽ ഒരു സ്ഥിരമായ രേഖ മാത്രമാണ് അതിനാൽ ഈ 0 1 പോയിന്റിലൂടെ കടന്നുപോകുന്ന നേർരേഖ ഡിഗ്രിയുടെ പോളിനോമിയൽ ഒരിക്കൽ കണക്കുകൂട്ടിയാൽ നമുക്ക് ഈ f 1 ആയി ലഭിക്കും തുടർന്ന് നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ട് ex ഡെറിവേറ്റീവ് ex ഉം x 0 ന് ഇത് വീണ്ടും 1 ഉം ആയിരിക്കും ഡിഗ്രി 1 ന്റെ പോളിനോമിയൽ 1 x ആയി ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇത് വീണ്ടും ചരിവ് 1 ഉള്ള നേർരേഖയാണ് ഇപ്പോൾ ഈ പ്രക്രിയ തുടരുകയാണെങ്കിൽ നമുക്ക് P2 P3 എന്നിവ വിലയിരുത്താൻ കഴിയും അതിനാൽ P3 വീണ്ടും ഈ കർവ് ഉപയോഗിച്ച് ഇവിടെ പ്ലോട്ട് ചെയ്തു തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് P5 ലഭിക്കും ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ P5 പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ P5 എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുമായി വളരെ അടുത്താണ് അല്ലെങ്കിൽ ഈ പോയിന്റിനു ചുറ്റുമുള്ള വിശാലമായ ഇടവേളയിൽ ഇത് വളരെ അടുത്താണെന്ന് നിങ്ങൾ കാണുന്നുവെങ്കിൽ ഇത് ഇവിടെ ഈ വിപുലീകരണത്തിന്റെ പോയിന്റായിരുന്നു ഡിഗ്രി 6 അല്ലെങ്കിൽ 7 ന്റെ പോളിനോമിയലിനായി നമ്മൾ കൂടുതൽ നീങ്ങുകയാണെങ്കിൽ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് കൂടുതൽ നീങ്ങും അതാണ് ടെയിലേഴ്സ് പോളിനോമിയലിന്റെ ആശയം പോളിനോമിയലിന്റെ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മുടെ പ്രവർത്തനത്തെ നമുക്ക് ഇഷ്ടമുള്ളത്രയും മികച്ചതായി കണക്കാക്കാം ഇവയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും ടെയിലേഴ്സ് പോളിനോമിയലും ഫങ്ക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ടെയിലേഴ്സ് പോളിനോമിയൽ ടെയിലേഴ്സ് ഫങ്ക്ഷനെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ഈ Rn നെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ മൂല്യങ്ങളും പോളിനോമിയൽ Pn ഉം തമ്മിലുള്ള വ്യത്യാസമായി നമ്മൾ സൂചിപ്പിക്കും ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് Rn ഫംഗ്ഷന്റെയും പോളിനോമിയൽ Pn ന്റെയും ഈ വ്യത്യാസത്തെ നമ്മൾ നിർവചിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ Rn നെ റിമൈൻഡർ എന്ന് വിളിക്കുന്നു കാരണം ഇതാണ് പോളിനോമിയൽ മൂല്യം മൈനസ് ഫംഗ്ഷന്റെ യഥാർത്ഥ മൂല്യം ഈ Rn എങ്ങനെ വിലയിരുത്താമെന്നും മൂല്യനിർണ്ണയത്തിനായി കൂടുതൽ മുന്നോട്ട് പോകണമെന്നും ഇപ്പോൾ ചോദ്യം x0 ൽ Rn ആണ് കാരണം Rn f - Pn x0 ലെ ഈ പോളിനോമിയൽ x0 ലെ ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമാണ് അതിനാൽ ഇത് 0 ഉം ആദ്യത്തെ ഡെറിവേറ്റീവ് അതേ കാര്യവുമാണ് x0 എന്നതിലെ ഒരു എഫിന്റെ ആദ്യ ഡെറിവേറ്റീവ് x0 ലെ പോളിനോമിയലിന്റെ ആദ്യ ഡെറിവേറ്റീവിന് തുല്യമാണ് ഇത് ഈ പോളിനോമിയലിന്റെ നിർമ്മാണമായിരുന്നു ഈ n th ഓർഡർ ഡെറിവേറ്റീവ് എല്ലാം തുല്യമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ x പോയിന്റിലെ ഈ Rn അല്ലെങ്കിൽ x0 പോയിന്റിലെ ആദ്യത്തെ ഡെറിവേറ്റീവ് x0 പോയിന്റിലെ n th ഡെറിവേറ്റീവ് എല്ലാം 0 ന് തുല്യമാണ് ഈ വ്യവസ്ഥകൾ Rn ന് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ മറ്റൊരു ഫങ്ക്ഷൻ പരിഗണിക്കുന്നു g 0 എന്നത് ആദ്യത്തെ ഡെറിവേറ്റീവ് ആണെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഫംഗ്ഷനും പ്രോപ്പർട്ടി ഉണ്ട് കാരണം n 1 x - 0n എന്നിവയും x0 പോയിന്റിൽ 0 ആയി മാറും നമുക്ക് ഈ വ്യത്യാസം n th ഓർഡർ വരെ തുടരാം ഒപ്പം x0 പോയിന്റിലെ ഈ ഡെറിവേറ്റീവുകളെല്ലാം 0 ആയിരിക്കും ഇപ്പോൾ നമുക്ക് എന്ത് അവസ്ഥയുണ്ട്

നമുക്ക് രണ്ട് ഫംഗ്ഷനുകളുണ്ട് ഒന്ന് Rn മറ്റൊന്ന് g അവയ്ക്ക് സമാന സ്വഭാവങ്ങളുണ്ട് ഈ ഡെറിവേറ്റീവ് എല്ലാം nth ഓർഡർ വരെ അപ്രത്യക്ഷമാകുന്നു ഈ ഇടവേളയിൽ അത് x പോയിന്റിലേക്ക് എടുക്കുകയും x x0 നേക്കാൾ വലുതാണെന്ന് കരുതുകയും ചെയ്താൽ x x0 നേക്കാൾ കുറവാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനുകൾക്കും നമ്മൾ കോഷി മീൻ വാല്യൂ സിദ്ധാന്തം പ്രയോഗിക്കുന്നു ഈ ഇടവേളയിലെ x0 മുതൽ x വരെയുള്ള ഇടവേളയിലെ Rn ഫംഗ്ഷനും g ഫംഗ്ഷനും

ഇപ്പോൾ Rn 0 ഉം g 0 ഉം ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ ഫലം നമുക്ക് ഉണ്ട് നമ്മൾക്ക് ഈ പ്രക്രിയ തുടരാം x0 ξ1 ൽ Rn g എന്നീ ഡെറിവേറ്റീവുകൾക്കായുള്ള കോഷി മീൻ വാല്യൂ സിദ്ധാന്തം നമ്മൾ വീണ്ടും പ്രയോഗിച്ചാൽ ഈ ആദ്യ ഡെറിവേറ്റീവുകളും 0 ആയതിനാൽ നമുക്ക് ഫലം ലഭിക്കും x0 മുതൽ ξ1 വരെ നമ്മൾ പരിഗണിച്ച ഈ ഇടവേളയ്ക്കിടയിലുള്ള ചില പോയിന്റ് അടുത്ത ഡെറിവേറ്റീവിനായി ഈ പ്രക്രിയ തുടരാം ഈ കോഷി മീൻ വാല്യൂ സിദ്ധാന്തം നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നത് നിങ്ങൾക്ക് n 1 ഡെറിവേറ്റീവിലേക്ക് പോകാം കാരണം n th ഡെറിവേറ്റീവ് Rn g എന്നിവ രണ്ടും 0 ആണ് നമ്മൾ ഈ ഫങ്ക്ഷൽ അവസാനിക്കും തുടർന്ന് ഇവിടെ ξn 1 x0 നും ξn നും ഇടയിലാണ് സ്ഥിതിചെയ്യുന്നത് അവിടെ x വരെ തുടർച്ചയുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഈ ഫാക്റ്റോറിയൽ പ്ലസ് 1 പദം ഇവിടെ വന്നു തുടർന്ന് നമുക്ക് ഈ g ഉണ്ട് അത് ഫംഗ്ഷനും ഇവിടെ അവതരിപ്പിച്ച ξn 1 ξ ഉം ആയിരുന്നു ഇപ്പോൾ നമ്മൾ പകരം വച്ചിരിക്കുന്നു ξ ഇത് ഈ x0 നും x പോയിന്റിനും ഇടയിലായി സ്ഥിതിചെയ്യുന്നു അതിനാൽ ഇവിടെ എഴുതുന്നത് x x0 നും x നും ഇടയിലാണ് f ഉം Pn ഉം തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മൾ നിർവചിച്ചിരിക്കുന്ന ഈ Rn നിങ്ങൾ ഈ റിമൈൻഡർ ഫങ്ക്ഷന്റെ n 1th ഡെറിവേറ്റീവും എടുത്താൽ ഈ f ന്റെ n 1 th ഡെറിവേറ്റീവ് മൈനസ് ഈ p യുടെ n 1th ഡെറിവേറ്റീവിന് തുല്യമാണ് n 1th ഡെറിവേറ്റീവ് എടുത്താൽ ഈ പദം 0 ആയിത്തീരും കൂടാതെ നമുക്ക് ഈ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ആയിരുന്ന സൂത്രവാക്യത്തിൽ പകരം വയ്ക്കാം അതിനാൽ ഈ ന്റെ ഈ മൂല്യം എന്നായി നമ്മൾ ഇപ്പോൾ മാറ്റിസ്ഥാപിച്ചു ഇപ്പോൾ നമുക്ക് ഇവിടെ പോളിനോമിയൽ ലഭിച്ചു ഇത് Rn എന്ന റിമൈൻഡർ പദമാണ് ഈ റിമൈൻഡർ ലഗ്രാഞ്ച് രൂപമാണ് ഈ പദം നമുക്ക് ഈ രൂപത്തിൽ മാറ്റിയെഴുതാനും കഴിയും അവിടെ ദൃശ്യമാകുന്ന ഈ x നമ്മൾ ഈ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു 0 ന് അടുത്താണെങ്കിൽ ഒന്നിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ വാദം x0 ലേക്ക് നീങ്ങുന്നു ഈ f ന്റെ ഈ വാദം x0 നും x നും ഇടയിലാണ് അതിനാൽ മറ്റ് രൂപത്തിന് സമാനമായ അർത്ഥമുണ്ട് റിമൈൻഡർയുള്ളവയുടെ ഈ ലഗ്രാഞ്ച് ഫോം ഈ രൂപത്തിലും എഴുതാം ടെയിലേഴ്സ് സിദ്ധാന്തം അല്ലെങ്കിൽ ടെയിലേഴ്സ് സൂത്രവാക്യം ഇപ്പോൾ നിങ്ങൾ സംഗ്രഹിച്ചാൽ നമ്മൾക്ക് f എന്ന ഫംഗ്ഷൻ ഉണ്ട് ഇത് രൂപത്തിൽ വികസിപ്പിക്കാം ടേമും ഒപ്പം ഈ റിമൈൻഡർ പദം Rn ഈ രൂപമായി നമ്മൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞതാണ് അതിനെ റിമൈൻഡറിന്റെ ലഗ്രാഞ്ച് ഫോം എന്ന് വിളിക്കുന്നു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ n 0 എടുക്കുമ്പോൾ അതിനർത്ഥം ഈ റിമൈൻഡർ പദം എഴുതേണ്ട ഓർഡർ വരെ നമ്മൾക്ക് ഇത് ലഭിക്കുന്നു എന്നിട്ട് നമ്മൾ പരിഗണിക്കുന്നതെന്തും ഈ x മൈനസ് വഴി അല്ലെങ്കിൽ x0 ഉണ്ട് ഈ x a നും x നും ഇടയിലാണ് ഈ സാഹചര്യത്തിൽ ടെയിലേഴ്സ് പ്രമേയത്തിന്റെ ഈ രൂപം നമുക്ക് ലഭിക്കുന്നു അത് ലഗ്രാഞ്ച് ഫോം മീൻ വാല്യൂ സിദ്ധാന്തമായിരുന്നു ഈ കേസിൽ n 0 ഇടുന്നതിലൂടെ നമ്മൾ കണ്ട മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ ഒരു പ്രത്യേക കേസാണിത് നമ്മൾ ഈ ടെയിലേഴ്സ് ഫോർമുലയിൽ x0 0 പോയിൻറ് വിപുലീകരണം സജ്ജമാക്കുകയാണെങ്കിൽ അതിനെ മക്ലോറിൻ ഫോർമുല എന്നും ടെയ്ലർ ഫോർമുലയിലും Rn → 0 ആണെങ്കിൽ ടെയിലേഴ്സ് സമവാക്യം പരമ്പരയുടെ രൂപത്തിൽ എഴുതാം അതിനാൽ f നിങ്ങൾക്ക് അനന്തമായ കാലത്തേക്ക് തുടരാം ഇതിനെ ടെയ്ലർ സീരീസ് എന്ന് വിളിക്കുന്നു x 0 ന് നമ്മൾ ഇത് x0 0 എന്ന് പറഞ്ഞാൽ ഇതിനെ മാക്ലോറിൻസ് സീരീസ് എന്ന് വിളിക്കുന്നു ഈ അവസാന പരാമർശം നമ്മൾ വീണ്ടും കണ്ടത് അതിനാൽ ആകുമ്പോൾ ആണെങ്കിൽ ടെയിലേഴ്സ് മക്ലോറിൻ സീരീസിന്റെ കൺവെർജൻസിന് അത് ആവശ്യവും പര്യാപ്തവുമാണ് കാരണം അവ സുഗമമായ ഫംഗ്ഷൻ സീരീസിന്റെ ഉദാഹരണങ്ങളാണ് മിനുസമാർന്നത് അർത്ഥമാക്കുന്നത് ഡെറിവേറ്റീവുകളാണ് ടെയ്ലർ സീരീസ് വിപുലീകരണ സ്ഥാനത്തേക്കാൾ എല്ലായിടത്തും വ്യതിചലിക്കുന്നു കാരണം ഒരു വിപുലീകരണത്തിന്റെ ഒരു ഘട്ടത്തിൽ സീരീസിന് നിർമ്മാണമനുസരിച്ച് ഫങ്ക്ഷന് തുല്യമായ മൂല്യമുണ്ടാകും ഈ സുഗമമായ ഫംഗ്ഷനുകളുടെ ഉദാഹരണമുണ്ട് ടെയ്ലർ സീരീസ് മറ്റേതെങ്കിലും ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഉദാഹരണം എടുക്കുന്നു x 0 ന് തുല്യമല്ല x 0 ന് തുല്യമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഒരാൾക്ക് ഇത് എളുപ്പത്തിൽ കാണിക്കാൻ കഴിയും f ഞാൻ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എന്നാൽ ഈ ഫംഗ്ഷന്റെ ഏതെങ്കിലും ക്രമത്തിന്റെ എല്ലാ ഡെറിവേറ്റീവുകളും 0 ന് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും x 0 ന് ചുറ്റും ടെയ്ലർ സീരീസ് അല്ലെങ്കിൽ മറ്റ് മക്ലോറിൻ സീരീസ് എഴുതുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും കാരണം എല്ലാ ഡെറിവേറ്റീവുകളും 0 ആണ് നിങ്ങൾക്ക് ലഭിക്കും എന്നിട്ട് നമ്മൾ ഇവിടെ കാണുന്നതെന്തും മാക്ലോറിൻ സീരീസ് 0 നൽകുന്നു അതിനർത്ഥം സീരീസ് x എന്നത് 0 മാത്രമുള്ള ഏതൊരു സംഖ്യയെയും കൺവെർജ് ചെയ്യിപ്പിക്കുന്നു എന്നാൽ ഇത് ഫംഗ്ഷന്റെ പ്രവർത്തനത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നില്ല ഈ മക്ലൌറിൻ അല്ലെങ്കിൽ ടെയ്ലർ സീരീസുകൾ ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യുന്നില്ലെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വളരെ ലളിതമായ ഉദാഹരണമാണ് ഇത് ഇപ്പോൾ ex ന്റെ മക്ലോറിൻ സീരീസിന്റെ ഈ ഉദാഹരണം നോക്കാം എക്സ്പോണൻഷ്യൽ ഈ ഫംഗ്ഷനായി നമ്മൾ എന്ത് ഡെറിവേറ്റീവ് എടുക്കുന്നുവോ അത് എക്സ്പോണൻഷ്യൽ x മാത്രമാണ് 0 ന് നമുക്ക് മൂല്യം 1 ഉണ്ട് n ന്റെ എല്ലാ മൂല്യങ്ങൾക്കും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ എല്ലാ ഡെറിവേറ്റീവുകളും 1 നമുക്ക് എളുപ്പത്തിൽ എഴുതാം ഈ മക്ലോറിൻസ് സീരീസ് സിദ്ധാന്തം എല്ലാ ഡെറിവേറ്റീവുകളും 1 ഒപ്പം അതിനാൽ Rn എന്നത് ശേഷിക്കുന്ന പദമാണ്

ഇവിടെ നമ്മൾ ഈ x0 0 മാറ്റിസ്ഥാപിച്ചാൽ ഈ റിമൈൻഡർ ലഭിക്കും ഈ Rn ന് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ കാണും പോകുമ്പോൾ ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എക്സ്പ്ലോണൻഷ്യൽ ഫംഗ്ഷന്റെ മാക്ലൌറിൻ സീരീസ് എഴുതാം ഇതാണ് മാക്ലൌറിൻസ് തിയറം Maclaurin's theorem ഈ പദം പോകുമ്പോൾ 0 ലേക്ക് പോയാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഒരു ശ്രേണിയായി എഴുതാം നമുക്ക് ഈ Rn നീക്കംചെയ്യാം തുടർന്നുള്ള പദങ്ങൾ ഒരു ശ്രേണിയായി തുടരാം നമുക്ക് പരിശോധിക്കാം ഇതാണ് Rn ശേഷിക്കുന്ന പദം ഈ ശേഷിക്കുന്ന ഫങ്ക്ഷന്റെ കേവല മൂല്യം ആയി എടുക്കുകയാണെങ്കിൽ ഈ ഒരു പരിമിത ഡിഗ്രിയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു ഇവിടെ n ടേം ഇല്ലാത്തതിനാൽ ഇത് ശല്യപ്പെടുത്തുകയില്ല ഇപ്പോൾ ഈ ഫങ്ക്ഷൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെങ്കിൽ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ആയിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം ഇത് ആയി മാറുന്നു ഇവിടെ ഈ x ഉദാഹരണമായിരിക്കുമ്പോൾ 1 നെക്കാൾ വലിയ സംഖ്യ ഈ പദം എന്നതിലേക്ക് പോകുന്നു n ലേക്ക് പോകുമ്പോൾ ഈ ഫങ്ക്ഷന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ലളിതമായി പറയാൻ കഴിയില്ല n ലേക്ക് പോകുമ്പോൾ ഈ ഫങ്ക്ഷന് എന്ത് സംഭവിക്കുമെന്ന് ഈ പരിധി നമ്മൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കേണ്ടതുണ്ട് x ന്റെ ഒരു നിശ്ചിത മൂല്യത്തിനായി നമ്മൾ പരിഗണിക്കുന്നത് വളരെ വലിയ സംഖ്യയായിരിക്കാവുന്ന x ന് നമുക്ക് എല്ലായ്പ്പോഴും കഴിയും പക്ഷേ നമുക്ക് ഒരു എണ്ണൽ സംഖ്യ n കണ്ടെത്താനാകും അതായത് | x | n നേക്കാൾ വലുതാണ് നമ്മൾ ഇവിടെ x എടുക്കുന്നതെന്തും ഈ N വലിയ N | x | നേക്കാൾ വലുതാണ് ഇത് ഉള്ളതിനാൽ ഫോർമുലയിൽ ദൃശ്യമാകുന്ന ചെറിയ n പദം കൂടി പരിഗണിക്കും ഈ സംഖ്യയേക്കാൾ വലുതാണ് ഇത് ഇപ്പോൾ നമ്മൾ ഈ പദം പരിഗണിക്കുന്നു പ്രോഡക്റ്റിന്റെ രൂപത്തിൽ നമുക്ക് എഴുതാം ഫാക്റ്റോറിയൽ x നെ 1 ഫാക്റ്റോറിയൽ കൊണ്ട് ഹരിക്കുന്നു വീണ്ടും x 2 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ തുടരാം ഈ N 1 ടേമിന് ശേഷം പ്രത്യക്ഷപ്പെടുന്ന ഈ പദം ഇവിടെ നോക്കുക | x | N ഇവിടെയും ഇത് |x| N 1 എന്നിങ്ങനെ ഈ പദം ഇവിടെ | x | N ഈ പദപ്രയോഗത്തിൽ നിന്ന് നമ്മൾ കാണുന്നതെന്താണ് | X | N 1 ഇപ്പോൾ ഇത് q എന്ന സംഖ്യയായി കരുതുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ ഒരു q ഉണ്ട് ഇത് വാസ്തവത്തിൽ N 1 കൊണ്ട് ഹരിക്കുന്നു ഇത് q നേക്കാൾ കുറവാണ് ഇവിടെയുള്ള മറ്റ് എല്ലാ പദങ്ങളും q നേക്കാൾ കുറവാണ് ഈ n N നമ്മൾ ഈ N 1 ടേം വരെ പോയി ഈ N ഉള്ള ഇത് എവിടെയെങ്കിലും നടുവിലായിരിക്കും ഇപ്പോൾ ഈ q നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നതിനാൽ | x | N 1 ഇപ്പോൾ നാം കാണുന്നത് അസമത്വത്താൽ ഈ സമത്വത്തെ മാറ്റിസ്ഥാപിക്കാൻ കഴിയും തുല്യമായതിനേക്കാൾ കുറവാണ് കാരണം ഇവിടെ നമ്മൾ q ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ഇതിനെ q 1 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു ഇതും q നേക്കാൾ കുറവാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ എത്ര q ഉണ്ട് N 1 നിബന്ധനകൾ ഇതിനകം തന്നെ ഉണ്ട് തുടർന്ന് മൊത്തം നിബന്ധനകൾ n 1 ആയിരുന്നു നമുക്ക് ഇപ്പോൾ വീണ്ടും എഴുതാൻ കഴിയുമെങ്കിൽ ആകെ പദം n 1 ഇതിനകം ഈ പദങ്ങൾ n - 1 അതിനാൽ n 1 ഇവിടെ ഈ നമ്പർ n - N 2 ഉം ഉം ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പരിധി എടുക്കാം ഒപ്പം q 1 ഈ ഇവിടെ അത് അനന്തതയിലേക്കും q 1 ലേക്ക് പോകുന്നു തുടർന്ന് ഇത് 0 ലേക്ക് പോകുന്നു ഇവിടെ ചില നിശ്ചിത സംഖ്യ ദൃശ്യമാകുന്നു ഇതെല്ലാം 0 ലേക്ക് പോകുന്നു ഈ ശേഷിക്കുന്ന ഫങ്ക്ഷന്റെ ഈ കേവല മൂല്യം 0 ലേക്ക് പോകുന്നു റിമൈൻഡർ ഫങ്ക്ഷന്റെ ഭാഗമായ ഈ റിമൈൻഡർ പദം 0 എന്ന പദത്തെക്കാൾ കുറവാണെന്ന് നമ്മൾ കണ്ടു കൂടാതെ നമുക്ക് എന്ന് നിഗമനം ചെയ്യാം ഈ പ്രഭാഷണങ്ങളും നിഗമനങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ ഇന്ന് നമ്മൾ പഠിച്ചത് ടെയിലേഴ്സ് ഫോർമുലയും ഡിഫറൻഷ്യൽ കാൽക്കുലസിലെ വളരെ പ്രധാനപ്പെട്ട വിഷയവുമാണ് മിനുസമാർന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് എന്ന് എഴുതാം ഈ Rn പദം റിമൈൻഡർ പദം എന്ന് വിളിക്കുന്നു ഇത് ശേഷിക്കുന്ന ഫങ്ക്ഷന്റെ ഒരു രൂപമാണ് ഇതിനെ നമ്മൾ ടെയിലേഴ്സ് പോളിനോമിയൽ എന്ന് വിളിക്കുന്ന പോളിനോമിയൽ പദം എന്ന് വിളിക്കുന്നു ഇതിനെ മുഴുവൻ ഫലവും ടെയിലേഴ്സ് ഫോർമുല എന്ന് വിളിക്കുന്നു Rn → 0 ആയിരിക്കുമ്പോൾ ടെയ്ലർ സീരീസ് എന്ന് വിളിക്കുന്ന ഒരു ശ്രേണിയുടെ നിബന്ധനകളിലേതുപോലെ ഈ ടെയിലേഴ്സ് സമവാക്യം എഴുതാനും നമ്മൾ നിരീക്ഷിച്ചു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി